അതിനാൽ ഈ മൊഡ്യൂളിൽ നമ്മൾ ആന്റിനകളെ മോഡലിംഗ് ചെയ്യുന്നതിനുള്ള കമ്പ്യൂട്ടേഷണൽ ഇലക്ട്രോമാഗ്നെറ്റിക്സിന്റെ ചില ആപ്ലിക്കേഷനുകൾ നോക്കാൻ പോകുന്നു അവയുടെ പ്രതിരോധം എന്താണ് അവ എങ്ങനെ പ്രസരിക്കുന്നു അതിനാൽ ആരംഭിക്കുന്നതിന് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ചെറിയ രീതിയിൽ വഴിമാറി പോകും അതിനാൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ Maxwell's equation നിന്ന് നമ്മൾ കണ്ടത് നിങ്ങൾ എനിക്ക് കറന്റ് നൽകിയാൽ എനിക്ക് E H എന്നിവ കണക്കാക്കാം അതാണ് നമ്മുടെ നേരായ വഴി അല്ലേ അതിനാൽ നിങ്ങൾക്ക് ഒരു കാന്തിക വൈദ്യുതധാര ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് J തരും ചിലപ്പോൾ M പോലും എന്നിട്ട് E H എന്നിവ പുറത്തുവരുകയും ചെയ്താൽ ഇത് ഒരു സാധാരണ മാർഗമാണ് എന്നാൽ ഈ പ്രവാഹങ്ങളിൽ നിന്ന് നിങ്ങൾ പോകുന്ന മറ്റൊരു വഴിയുണ്ട് അതിനിടയിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ കണക്കാക്കും ഇവയാണ് കാന്തിക വൈദ്യുത വെക്റ്റർ പൊട്ടൻഷ്യലുകൾ ഇവിടെ നിന്ന് നിങ്ങൾ E H എന്നിവയിലേക്ക് പോകുന്നു അതിനാൽ ഇവ രണ്ട് വഴികളാണ് ഇത് വഴി 1 ആണ് ഇത് വഴി 2 ആണ് ഈ വഴികളുടെ ഉറവിടവും ലക്ഷ്യസ്ഥാനവും അതേപടി തുടരുന്നു എന്നാൽ ഇടയിലുള്ള ഘട്ടങ്ങൾ വ്യത്യസ്തമാണ് ആന്റിന പ്രശ്നങ്ങൾക്ക് ഈ രണ്ടാമത്തെ റൂട്ട് ആണ് എളുപ്പമാണെന്നത് പൊതുവെ ശരിയാണ് നമ്മളുടെ സ്കാറ്ററിംഗ് പ്രശ്നത്തിൽ ഇതുവരെ നമ്മൾ ഈ A വെക്ടറിനെ നേരിട്ടിട്ടില്ല നിങ്ങൾക്ക് വെക്റ്റർ A യുടെ അടിസ്ഥാനത്തിൽ ഈ സ്കാറ്ററിംഗ് പ്രശ്നം ഫോര്മുലറ്റ് ചെയ്യാനും കഴിയും അതിനാൽ അടിസ്ഥാനപരമായി ആ നാല് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ Maxwell's equations നിങ്ങൾ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിനാൽ ഈ വെക്റ്റർ പൊട്ടൻഷ്യലുകൾ നമ്മൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ലാത്തതിനാൽ അവയെ നമ്മൾ അവതരിപ്പിക്കും തുടർന്ന് നിങ്ങളുടെ ഹെർട്സ് ഡൈപോൾ ഏറ്റവും ലളിതമായ ആന്റിന നമ്മൾ കൈകാര്യം ചെയ്യും തുടർന്ന് കൂടുതൽ സങ്കീർണ്ണമായ കേസുകളിലേക്ക് പോകും ശരിയല്ലേ അതിനാൽ നമുക്ക് ഇവയെ നോക്കാം അതിനാൽ സ്കേലാർ വെക്റ്റർ പൊട്ടൻഷ്യലുകൾ അതിനാൽ നമ്മുടെ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ Maxwell's equations നമുക്ക് എഴുതാം ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്തെന്നാൽ കാന്തികമല്ലാത്ത വസ്തുക്കളുമായും അതിലുപരിയായി നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് അതിനാൽ നമ്മൾ ഇവിടെ ആന്റിന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആന്റിന അത് സ്വതന്ത്ര സ്ഥലത്ത് പ്രസരിക്കുന്നു ഇത് സാധാരണയായി നമ്മൾ പറയുന്ന സ്വതന്ത്ര ഇടമാണ് അതിനാൽ തീർച്ചയായും μ ശൂന്യമായ ഇടമാണ് പൊതുവെ നമ്മൾ ഇവിടെ കാന്തിക വസ്തുക്കളെക്കുറിച്ചല്ല സംസാരിക്കുന്നത് അതിനാൽ ഇവിടെ ഈ അവസ്ഥ എനിക്ക് ലളിതമായി മാറ്റിയെഴുതാം അതിനാൽ ഈ വെക്ടറിന്റെയും സ്കെലാർ പൊട്ടൻഷ്യലിന്റെയും ഏത് തരത്തിലുള്ള ആരംഭ പോയിന്റുകളാണ് ഈ സമവാക്യം ഇവിടെ ശരിയാണ് ഇത് നോക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെക്റ്റർ കാൽക്കുലസിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏത് രൂപത്തിലുള്ള ഏതെങ്കിലും വെക്റ്ററിനെ ഇത് തൃപ്തിപ്പെടുത്തുo എനിക്ക് H ന് പകരം വേറെ എന്തെങ്കിലും നൽകാനും എല്ലായ്പ്പോഴും സത്യമായ ഒരു പ്രസ്താവന നടത്താനും കഴിയുമോ ചുരുൾ അല്ലെ അതിനാൽ ഫീൽഡ് എന്താണെന്നത് പരിഗണിക്കാതെ തന്നെ ചുരുളിന്റെ വ്യതിചലനം എല്ലായ്പ്പോഴും 0 ആണ് എന്നതാണ് ആശയം അതിനാൽ എനിക്ക് എഴുതാം ഈ ബന്ധം എല്ലായ്പ്പോഴും തൃപ്തികരമായിരിക്കും എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് കൊണ്ട് A എന്തും ശരിയായിരിക്കുമെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല അതിനാൽ ഞാൻ ചെയ്യുന്നത് മാക്സ്വെല്ലിന്റെ സമവാക്യത്തിൽ Maxwell's equation നിന്ന് സ്ഥിരതയുള്ള എന്തെങ്കിലും ഞാൻ കണ്ടെത്തുകയാണ് ഇത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളുമായി Maxwell's equation പൊരുത്തപ്പെടാത്തതല്ല അതിനാൽ ഇത് ആദ്യത്തെ ആശയമാണ് അല്ലേ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത രണ്ടാമത്തെ ആശയം പക്ഷേ നമ്മൾ ഉപയോഗിക്കും വെക്റ്റർ കാൽക്കുലസിൽ പഠിക്കുന്ന മൊഡ്യൂളിന്റെ തുടക്കത്തിൽ ഇത് ശരിയായി ചെയ്തു ഏത് വെക്റ്റർ ഫീൽഡും പൂർണ്ണമായും ഒരു സ്ഥിരസംഖ്യയെ വ്യക്തമാക്കിയിരിക്കുന്നു നിങ്ങൾ അത് നൽകിയാൽ വിദ്യാർത്ഥി ചുരുൾ ചുരുളലും വ്യതിചലനവും ശരി അതിനാൽ അതിന്റെ ചുരുളും വ്യതിചലനവും എന്നിവയാൽ ഇത് പൂർണ്ണമായും വ്യക്തമാക്കിയിരിക്കുന്നു അല്ലേ അതിനാൽ ഈ വെക്റ്റർ ഫീൽഡ് Aക്ക് ഞാൻ എന്താണ് വ്യക്തമാക്കിയത് അതിനാൽ ഇതുവരെ ഞാൻ ചുരുളിനെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ 1 ഡിഗ്രി സ്വാതന്ത്ര്യം ഇപ്പോഴും എന്നിൽ ഉണ്ട് വ്യതിചലനം അത് ഞങ്ങൾ പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യും അതിനാൽ ഇപ്പോൾ ഇത് എന്റെ പക്കലുണ്ട് എനിക്ക് ഇത് എന്തുചെയ്യാൻ കഴിയും അതിനാൽ നമ്മുടെ സമവാക്യങ്ങൾ 1 2 3 4 എന്നിങ്ങനെ നമ്പർ ചെയ്യാം അല്ലേ അതിനാൽ ഇപ്പോൾ എനിക്ക് 1 ഉം 5 ഉം യോജിപ്പിക്കാൻ കഴിയും കാരണം 5 ൽ നിന്ന് എനിക്ക് H ലേക്കുള്ള ഒരു ബന്ധം ലഭിക്കും ശരിയല്ലേ അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്

അതിനാൽ ഈ E ഇവിടെയുള്ള ഈ ബന്ധം എപ്പോഴും ശരിയായിരിക്കും വിദ്യാർത്ഥി ഗ്രേഡിയന്റ് എന്തെങ്കിലും ശരിയുടെ ഗ്രേഡിയന്റ് പോലെയാണെങ്കിൽ അതിനാൽ രൂപത്തിലാണെങ്കിൽ അതിനാൽ ഇത് സമവാക്യം 6 ആണ് E പ്ലസ് j ഒമേഗ A രൂപത്തിലാണെങ്കിൽ മൈനസ് ഗ്രാഡ് ഫൈ എന്ന് നമുക്ക് പറയാം 6 എല്ലായ്പ്പോഴും ശരിയാണ് അതിനാൽ അത് എനിക്ക് എന്താണ് നൽകുന്നത്

നമുക്ക് ആ സമവാക്യത്തിനെ 7 എന്ന് വിളിക്കാം അപ്പോൾ നമ്മൾ എന്താണ് ആരംഭിച്ചത് നമ്മൾ A യിൽ നിന്ന് ആരംഭിച്ചു നിങ്ങൾക്ക് ഞാൻ A തരുന്നു എന്ന് കരുതുന്നു എനിക്ക് H തരുന്ന 5 എന്ന സമവാക്യo എന്റെ കൈയിൽ ഉണ്ട് അത് എനിക്ക് H നൽകും എനിക്ക് H ലഭിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഉദാഹരണത്തിന് H ന്റെ ചുരുൾ എടുത്ത് E ശരിയാക്കാം കൂടാതെ A യുടേയും യുടേയും അടിസ്ഥാനത്തിൽ E യുമായി എനിക്ക് ബന്ധമുണ്ട് ശരിയല്ലേ അതിനാൽ A യെ കാന്തിക വെക്റ്റർ പൊട്ടൻഷ്യൽ എന്നും വിനെ സ്കെലാർ പൊട്ടൻഷ്യൽ എന്നും വിളിക്കുന്നു ശരിയല്ലേ അതിനാൽ ഈ പോയിന്റ് നമ്പർ 2 നെക്കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അതിനാൽ നമുക്ക് അതിലേക്ക് വരാം അപ്പോൾ നമുക്ക് അടുത്തതായി എന്തുചെയ്യാൻ കഴിയും വിദ്യാർത്ഥി ആദ്യ സമവാക്യത്തിന്റെ ചുരുൾ ആദ്യ സമവാക്യത്തിന്റെ ചുരുൾ എടുക്കുക അത് ശരിക്ക് പകരം വയ്ക്കാൻ നമ്മളെ അനുവദിക്കും അതിനാൽ നമുക്ക് അത് ഇവിടെ എഴുതാം അതിനാൽ എന്റെ ആദ്യത്തെ സമവാക്യം ഇപ്പോൾ ഇരുവശവും ചുരുൾ എടുത്താൽ എനിക്ക് കിട്ടും വിദ്യാർത്ഥി ഐഡന്റിറ്റി ഐഡന്റിറ്റി നമ്മൾ പ്രയോഗിക്കണം എനിക്ക് വേറെന്തെങ്കിലുo ചെയ്യാൻ കഴിയില്ലേ അതിനാൽ ശരി അപ്പോൾ പിന്നെ എന്ത് അതിനാൽ ഇത് നമ്മളെ ഒരു വഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ നമുക്ക് വെക്റ്റർ കാൽക്കുലസ് ഐഡന്റിറ്റി E യിൽ തന്നെ പ്രയോഗിക്കേണ്ടി വരും ഇതായിരുന്നു സമവാക്യം 1 ന്റെ വഴി ഞാൻ സമവാക്യം 2 തന്നെ എടുത്തിട്ട് ചുരുളുകളൊന്നുംപ്രയോഗിക്കുന്നില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും അതിനാൽ നമുക്ക് അങ്ങനെ എടുക്കാം അല്ലേ അതിനാൽ ആ വഴിയും ഇതേ പോയിന്റിലേക്ക് നമ്മെ എത്തിക്കും ഇതാണ് ഏറ്റവും ചെറിയ വഴി എപ്സിലോണും മ്യുവും ബഹിരാകാശത്തിന്റെ പ്രവർത്തനമല്ലെങ്കിൽ മാത്രമേ ഇത് ശരിയാവൂ ഉദാഹരണത്തിന് നമുക്ക് എപ്സിലോണിനെ നോക്കാം അതെ ഞാൻ ഇവിടെ ഇത് ചെയ്തപ്പോൾ നിങ്ങൾ ഇവിടെ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു ഞാൻ ഇത് ഡെൽ ഓപ്പറേറ്റർ എടുത്തപ്പോൾ ഇത് സ്ഥലത്തിന്റെ പ്രവർത്തനമല്ലെന്ന് ഞാൻ അനുമാനിച്ചു എന്തുകൊണ്ടാണ് ഇത് ശരിയാകുന്നത് കാരണം സാധാരണയായി സ്വതന്ത്ര സ്ഥലത്തു പ്രസരിക്കുന്ന ഒരു ആന്റിനയ്ക്കുള്ള മാക്സ്വെല്ലിന്റെ സമവാക്യം Maxwell's equation ആണ് ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അതിനാൽ സ്വതന്ത്ര ഇടം എനിക്ക് അങ്ങനെ അനുമാനിക്കാം μ സ്പെയ്സിന്റെ പ്രവർത്തനമല്ല എന്ന അനുമാനവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഞാൻ ഇവിടെ H ന് പകരം വയ്ക്കുമ്പോൾ ഇവിടെ ഒരെണ്ണം μ ഉണ്ടായിരുന്നു അത് ഞാൻ കേളിന്റെ പുറത്ത് എടുത്തു ശരിയല്ലേ അത് കൊണ്ട് ഇവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് പോന്നു അതിനാൽ നമുക്ക് ഇതിനെ സമവാക്യം 3 എന്ന് വിളിക്കാം ശരിയല്ലേ അതിനാൽ ഈ സമവാക്യം 3 നമ്മൾ മുമ്പ് കണ്ടത് പോലെയുള്ളതാണോ വിദ്യാർത്ഥി അങ്ങനെയല്ല ഇത് ചെറിയ രീതിയിൽ ഒരു ഹെൽംഹോൾട്ട്സ് സമവാക്യം പോലെ കാണപ്പെടുന്നു ഇത് ഹെൽംഹോൾട്ട്സ് സമവാക്യമല്ല എന്തുകൊണ്ട് വിദ്യാർത്ഥി അത് ഒരു ഈ വലിയ പദം ഇവിടെ ശരിയാണ് അതിനാൽ ഇത് ഏകദേശം അതിനാൽ പൊതുവെ നമ്മൾ ഇതിനെ Helmholtz സമവാക്യം എന്ന് വിളിക്കുന്നതിന് പകരം വെക്റ്റർ തരംഗ സമവാക്യം എന്ന് വിളിക്കും അതിനാൽ ഇത് ഒരു വെക്റ്റർ തരംഗ സമവാക്യം പോലെയാണ് ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് എന്നോട് പറയാമോ വിദ്യാർത്ഥി ഇതിൽ നിന്ന് ഇതൊരു ഭയാനകമായ സമവാക്യമാണ് ഇത് എങ്ങനെ ശരിയായി പരിഹരിക്കണമെന്ന് എനിക്കറിയില്ല എന്നാൽ ഇവിടെയാണ് ഞാൻ വസ്തുത നമ്പർ 2 ഉപയോഗിക്കുന്നത് വസ്തുത നമ്പർ 2 വ്യതിചലനമാണ് അതും കേളും രണ്ടും വ്യക്തമാക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ ഇപ്പോൾ A യുടെ വ്യതിചലനo വ്യക്തമാക്കുകയാണെങ്കിൽ ഈ റ്റേമിൻറെ നെഗറ്റീവ് വ്യതിചലനത്തിന്റെ ഏറ്റവും സ്വാഭാവികമായ തിരഞ്ഞെടുക്കൽ എന്താണ് അതിനാൽ എന്റെ കൈയിൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ അളവ് വ്യക്തമാക്കാമെന്ന് അനുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ലഭിക്കുന്ന സമവാക്യം 3 ന് എന്ത് സംഭവിക്കും ഇത് എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാം അതിനാൽ ഈ തിരഞ്ഞെടുപ്പ് ഇതായിരുന്നുവെന്ന് ഓർക്കുക ഞാൻ ഈ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടായിരുന്നില്ല എനിക്ക് ഇത് തിരഞ്ഞെടുക്കാമായിരുന്നു അതിലും ബുദ്ധിമുട്ടുള്ള പ്രശ്നം ഇത് പരിഹരിക്കാൻ കഴിയില്ലെങ്കിലും സംഖ്യാപരമായി എനിക്ക് ഇത് പരിഹരിക്കാൻ കഴിയും എന്നാൽ ഈ തിരഞ്ഞെടുപ്പിനെ ലോറന്റ്സ് ഗെയ്ജ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് വ്യതിചലനത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പാണെന്ന് ഓർക്കുക അവിടെ കൂളോoബ് ഗെയ്ജ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ഗെയ്ജ് ഉണ്ട് അവിടെ A യുടെ വ്യതിചലനത്തിനായി മറ്റ് ചില തിരഞ്ഞെടുപ്പുകൾ ഉണ്ട് അല്ലേ അതിനാൽ മിക്ക EM പ്രശ്നങ്ങളിലും അടിസ്ഥാന തത്ത്വചിന്ത ആഗ്രഹിക്കുന്ന പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കുന്നു അത് ജീവിതം എളുപ്പമാക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് അതിനാൽ ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ജീവിതം എളുപ്പമാക്കുന്നു കാരണം എനിക്ക് ഈ നല്ല വെക്റ്റർ തരംഗ സമവാക്യം ലഭിച്ചുവെന്ന് നിങ്ങൾക്കറിയാം ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾക്ക് അറിയാമോ അതെ ഇത്തരത്തിലുള്ള ഒരു സമവാക്യം പരിഹരിക്കാനുള്ള നേരായ മാർഗം എന്താണ് വിദ്യാർത്ഥി ഗ്രീനിന്റെ പ്രവർത്തനം ഗ്രീനിന്റെ പ്രവർത്തനം പൊതുവെ സമഗ്രമായ സമവാക്യ രീതികളിൽ പ്രത്യേകിച്ചും ശരിയാണ് കാരണം ഇത് സ്ഥിരമാണ് ഇത് സ്ഥലത്തിന്റെ പ്രവർത്തനമല്ല അതിനാൽ ഈ സമവാക്യം എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാം അത് എനിക്ക് പരിഹാരം നൽകും ഞാൻ ഇത് പരിഹരിക്കണമെന്ന് കരുതുന്നു വിദ്യാർത്ഥി സാർ വിദ്യാർത്ഥി ക്ഷമിക്കണം അനുമാനം വിദ്യാർത്ഥി നമുക്ക് കിട്ടിയാൽ നമുക്ക് കഴിയും കൃത്യമായി അതിനാൽ നമ്മൾ ഒരു പരിഹരിക്കുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് വരും നമ്മൾ ഒരിക്കൽ നമുക്ക് തീരുമാനിക്കാം A എങ്ങനെ കണക്കാക്കണം അതിലേക്ക് നമ്മൾ വരും അല്ലേ വിദ്യാർത്ഥി സർ എന്തിനാണ് പ്രോഗ്രാമുകൾക്ക് അദ്വിതീയമാകേണ്ടത് എന്നതും അതുപോലെ തന്നെ ആയിരിക്കും A യുടെ വ്യതിചലനത്തിനായി ഒരു കൂളോoബ്സ് ഗേയ്ജും Coulombs gauge ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ല അത് മറ്റ് ചില തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു അതിനാൽ ഓർക്കുക ഒടുവിൽ എന്താണ് എന്താണ് സ്ഥിരമായത് അത് വെച്ച എനിക്ക് ഇതേ E യും H ഉം കിട്ടും ഞാൻ എന്തൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തിയാലും കൂടാതെ നിങ്ങൾക്ക് അതേ E യും H ഉം കിട്ടും നിങ്ങളുടെ ഫോം A കൂടാതെ യും വ്യത്യസ്തമായിരിക്കും പക്ഷെ അത് കണക്കാക്കേണ്ടതില്ല അതിനാൽ യഥാർത്ഥത്തിൽ ഒരു സ്ലൈഡ് ബിറ്റ് ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ ഞാൻ വിവാദം എന്ന വാക്ക് ഉപയോഗിക്കണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞതിൽ അവ്യക്തതയുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരെ സംബന്ധിച്ചിടത്തോളം ഈ A യുംയും പൂർണ്ണമായും ഗണിതശാസ്ത്രപരമായ നിർമ്മിതികളാണ് അതെ പ്രശനം പരിഹരിക്കാൻ നമ്മളെ സഹായിക്കുന്നു അങ്ങനെയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ അതിനെ കാണുന്നത് ഭൌതികശാസ്ത്രജ്ഞർ എന്നിരുന്നാലും ഈ A യ്ക്കും യ്ക്കുംചില ഭൌതിക പ്രാധാന്യമോ ഫലമോ ആയി ബന്ധിപ്പിക്കുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ പറയുന്നത് നമ്മുടെ ഫീൽഡുകൾ അകെ നമുക്ക് അളക്കാൻ കഴിയും ഭൌതികശാസ്ത്രജ്ഞർ പറയുന്നു അല്ല A യ്ക്ക് കുറച്ച പ്രാധ്യാന്യം ഉണ്ട് കൂടാതെ അഹരോനോവ് ബോം ഇഫക്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്നുണ്ട് അത് അളക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു ഭൌതിക പ്രാധാന്യം A യ്ക്ക് നൽകുന്നു കൂടാതെ അവർ പറയുന്നു ചില വളരെ നിശ്ചിതമായ ക്വാണ്ടo രീതിയിൽ A യ്ക്ക് ചില ഭൌതിക അർഥം ഉണ്ട് അതുകൊണ്ട് A യും അദ്വതീയമായിരിക്കണം ശരിയല്ലേ അതിനാൽ ഈ ഗേജ് അവസ്ഥയും എല്ലാം കുറച്ചുകൂടി ശ്രദ്ധയോടെ കാണേണ്ടതുണ്ട് സാധാരണ ആന്റിന പ്രശ്നങ്ങളിൽ നമ്മൾ ഒരിക്കലും ആ പ്രശ്നത്തിലേക്ക് കടക്കില്ല അതിനാൽ നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകില്ലെന്ന് ഞാൻ അർത്ഥമാക്കുന്നു പക്ഷേ ഞാൻ പേര് ഇവിടെ എഴുതാം നിങ്ങൾക്ക് അത് അരോനോവ് ബോം നോക്കാം പക്ഷേ ഇത് ദിശയിലുള്ള രസകരമായ ഒരു വഴിത്തിരിവാണ് അതിനാൽ മറ്റേതെങ്കിലും ചോദ്യങ്ങൾ അതിനാൽ ഈ സമവാക്യം എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾക്കറിയാം ഗ്രീനിന്റെ പ്രവർത്തനത്തിലൂടെയാണ് പരിഹാരം എന്താണ് പരിഹാരമെന്ന് നിങ്ങൾക്ക് പറയാമോ വിദ്യാർത്ഥി ഏതെങ്കിലും D യിൽ ഏതെങ്കിലും D യിൽ ഇത് നിർബന്ധിത പ്രവർത്തനത്തോടുകൂടിയ കോൺവൊല്യൂഷൻ ആൻ ഇത് ഇoപൾസ് പ്രതികരണത്തിന്റെ ഇoപൾസ് കോൺവൊല്യൂഷൻ ആണ് ശരിയല്ലേ അതിനാൽ എന്താണ് അതിനാൽ ഞാൻ നിർവചിച്ചിട്ടുണ്ടെങ്കിൽ അതിനാൽ നിർവചനത്തിൽ എനിക്ക് ഇവിടെ ഒരു മൈനസ് ചിഹ്നമുണ്ടെങ്കിൽ അപ്പോൾ 3D ഞാൻ ഉദ്യേശിച്ചത് നിങ്ങൾക്ക് ഒന്നുകിൽ G 1D 2D 3D ആണ് പ്രശ്നം എങ്കിൽ കുറെ ഇന്റഗ്രൽസ് ആണ് നമുക്കുള്ളത് ശരിയല്ലേ അതായത് ഇത് ഇന്റഗ്രൽസ് കൊണ്ടാണ് 2D 3D ഗ്രീൻസ് ഫങ്ങ്ഷൻ കൊണ്ടാണെന്ന് നിങ്ങൾ അനുമാനിക്കുകയാണെങ്കിൽ പക്ഷെ പ്രശനം 2D ആണ് നിങ്ങൾ അൽപ്പം ശ്രദ്ധാപൂർവ്വം ചെയ്യണം കാരണം ഒരു ദിശയിൽ ഭൌതികശാസ്ത്രം സംഭവിക്കുന്നില്ലെങ്കിൽ ആ ദിശയിൽ സംയോജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചില അർത്ഥത്തിൽ ആ ദിശയിൽ അനന്തതയുണ്ട് അതിനാൽ xy യിൽ എന്തോ സംഭവിക്കുന്നു എന്നാൽ z ദിശയിൽ ഒന്നും മാറുന്നില്ല അതിനാൽ മാറ്റമില്ലാത്ത ഒരു ഫംഗ്ഷനായി ഞാൻ z ദിശയിൽ സംയോജിപ്പിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും എനിക്ക് അനന്തത ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാനും അത് ശരിയായി റദ്ദാക്കാനും കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാൽ കുറച്ചുകൂടി ജോലി നിങ്ങൾ ആ രീതിയിൽ ചെയ്യും അതിനാൽ നമ്മുടെ കൈയിൽ ഉള്ളതെല്ലാം കൂടി നമുക്ക് സംഗ്രഹിക്കാം അതിനാൽ പ്രശ്നത്തിന്റെ ഒഴുക്ക് അല്ലേ അതിനാൽ നിങ്ങൾക്ക് എന്താണ് നൽകിയിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം നൽകിയാൽ നമുക്ക് കറന്റ് J എന്ന് പറയാം ചില ആന്റിനയിൽ ഒഴുകുന്ന കറന്റ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും കോൺവൊല്യൂഷന്റെ A എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും കൂടാതെ ഈ സമവാക്യത്തിൽ നിന്ന് G ഇവിടെ സമവാക്യം 5 അല്ലേ അങ്ങനെ അതിനർത്ഥം എനിക്ക് A ലഭിക്കുന്നു എനിക്ക് A ലഭിച്ചുകഴിഞ്ഞാൽ രണ്ടാമത്തേത് എന്ത് ലഭിക്കും അതിൽ നിന്ന് H എന്തുകൊണ്ട് കാരണം നിർവചനം എന്താണ് അതിനാൽ എനിക്ക് ഈ ബന്ധം H ഇവിടെ ഉപയോഗിക്കാം മൂന്നാമത്തേത് നിങ്ങൾക്ക് പൊതുവെ ഇലക്ട്രിക് ഫീൽഡിൽ താൽപ്പര്യമുള്ള മൂന്നാമത്തെ കാര്യം എന്താണ് അത് ഇലക്ട്രിക് കാന്തിക മണ്ഡലങ്ങൾ കണ്ടെത്തുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം അതിനാൽ E ആകാൻ പോകുന്നത്എനിക്ക് എന്ത് തിരഞ്ഞെടുപ്പുകളാണ് ഉള്ളത് എന്നതാണ് അതിനാൽ ഈ നിർവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് എവിടെ പോകുന്നു അതിനാൽ ഇവിടെ നിന്ന് എനിക്ക് അത് എഴുതാം

അതിനാൽ ഇത് മാറും

അതിനാൽ ഇത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗo ഇതാണ് E കണ്ടെത്തുന്നതിനുള്ള ലളിതമായ മാർഗo ഇതാണോ ഒരു വൈദ്യുത വെക്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ ഓർമ്മയില്നിന്ന് തിരിച്ചുവിളിക്കുന്നു യുക്തിയിൽ നിന്ന് തിരിച്ച വിളിക്കുന്നു വിദ്യാർത്ഥി മാക്സ്വെല്ലിന്റെ സമവാക്യം മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ ശരിയല്ലേ അപ്പോൾ എനിക്ക് H അറിയാമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് E തരാമോ അതെ എന്താണ് E അതിനാൽ എനിക്ക് H ന്റെ കേൾ ഉപയോഗിക്കാം കാരണം ഘട്ടം 2 ൽ H എന്ന് ഞാൻ ഇതിനകം കണക്കാക്കിയിട്ടുണ്ട് എനിക്ക് H ഉം J യും അറിയാം എനിക്ക് E കിട്ടും ശരിയല്ലേ അതിനാൽ ഞാൻ ചെയ്യേണ്ടത് H കേൾ എടുക്കുക എന്നത് മാത്രമാണ് വിദ്യാർത്ഥി ഇവിടെ ഗേജിന്റെ വ്യത്യാസം ശരിയല്ലേ ഇല്ല ശരി അതിനാൽ ആദ്യമായി യൂണിക്നെസ്സ് തിയറത്തിന്റെ പ്രസ്താവനകൾ അതല്ല എപ്സിലോൺ മ്യു ഫീൽഡുകൾ അദ്വിതീയമാണെന്ന് എനിക്കറിയാമെങ്കിൽ യൂണിക്നെസ്സ് തിയറത്തിന്റെ പ്രസ്താവന എനിക്ക് ടാൻജൻഷ്യൽ E H ഫീൽഡുകളോ അവയുടെ ചില സംയോജനമോ അടുത്ത രൂപരേഖയിൽ അറിയാമെങ്കിൽ എല്ലായിടത്തും ഉള്ള ഫീൽഡുകൾ എനിക്കറിയാം കൂടാതെ അവ അദ്വിതീയവുമാണ് അതിനാൽ എനിക്കറിയുന്നത് മാത്രം പോരാ ഉദാഹരണത്തിന് അനന്തമായ ഫീൽഡുകൾ സ്വതന്ത്ര ഇടം നൽകിയിട്ടുണ്ടെന്ന് ഞാൻ അർത്ഥമാക്കുന്നു ഓരോ തവണയും നിലവിലെ കറന്റിന്റെ പാറ്റേൺ മാറ്റുമ്പോൾ എനിക്ക് വ്യത്യസ്തമായ റേഡിയേഷൻ സിദ്ധാന്തം ലഭിക്കും അതിനാൽ ഗോജ് വ്യവസ്ഥ ലംഘിക്കുന്നില്ല എന്നത് അദ്വിതീയ സിദ്ധാന്തത്തേയും ലംഘിക്കുന്നില്ല കാരണം ഞാൻ തിരഞ്ഞെടുക്കുന്ന വ്യത്യസ്ത ഗോജ് വ്യവസ്ഥ എന്തായാലും എനിക്ക് ഒരേ E H എന്നിവ ലഭിക്കും എനിക്ക് അതേ E H എന്നിവ ലഭിക്കുകയാണെങ്കിൽ ഈ രൂപരേഖയിലെ ടാൻജൻഷ്യൽ ഫീൽഡുകൾ ഒന്നുതന്നെയാണ് അതിനാൽ അദ്വിതീയ സിദ്ധാന്തം ലംഘിക്കപ്പെടുന്നില്ല നിങ്ങൾക്ക് ഒരേ ഫീൽഡുകൾ ലഭിക്കും ഇത് ഒരു ഇന്റർമീഡിയറ്റ് വേരിയബിൾ പോലെയാണ് നിങ്ങൾ അതേ കാര്യം ശരിയാക്കി അതിനാൽ നമ്മൾ മുന്നോട്ട് പോകുകയാണ് ഞാൻ ഇത് എഴുതട്ടെ അതിനാൽ ഏത് ആന്റിന പ്രശ്നത്തിലും നമ്മൾ ചെയ്യേണ്ടത് ഇതായിരിക്കും